ഗുഡ് മോർണിങ് സുഹൃത്തുക്കളേ അതിനാൽ നമ്മൾ നമ്മുടെ ആദ്യ ആഴ്ചയിലെ നാലാമത്തെ പ്രഭാഷണത്തിലാണ് ഇവിടെ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ആണ് ഉപയോഗിക്കുന്നത് കൂടാതെ നമ്മൾ ഇതിനകം മൂന്ന് പ്രഭാഷണങ്ങൾ കവർ ചെയ്തു അവിടെ അടിസ്ഥാന തെർമോഡൈനാമിക് സിസ്റ്റങ്ങൾ സിസ്റ്റവും സറൌണ്ടിങ്ങും തമ്മിൽ ഹീറ്റ് വർക്ക് മാസ് ട്രാൻസ്ഫർ എന്നിവയുടെ രൂപത്തിൽ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഇന്ററാക്ഷൻസ് എന്നിവ പോലുള്ള അടിസ്ഥാന വിഷയങ്ങൾ അവലോകനം ചെയ്തു തുടർന്ന് തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ നമ്മൾ അവലോകനം ചെയ്തു സിറോത്ത് ഒന്നും രണ്ടും നിയമം തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ പ്രത്യേകിച്ച് ആദ്യത്തെ നിയമം ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ വിശകലനം നടത്തി അവിടെ നമ്മൾ കണ്ടെത്തി ഏതെങ്കിലും ഒരു നിയമം മാത്രം കൊണ്ട് ഒരു കാര്യവും ഇല്ല പകരം ഏതെങ്കിലും തരത്തിലുള്ള തെർമോഡൈനാമിക് വിശകലനത്തിന് നമ്മൾ അടിസ്ഥാനപരമായി ഒന്നാമത്തെയും രണ്ടാമത്തെയും നിയമത്തെ ഒരുമിച്ച് പരിഗണിക്കേണ്ടതുണ്ട് കാരണം തെർമോഡൈനാമിക്സിന്റെ ആദ്യത്തെ നിയമം എനർജി ബാലൻസ് മാത്രമേ നൽകുന്നുള്ളൂ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ സംഭരിച്ച ഊർജ്ജത്തിലെ വ്യതിയാനത്തിന്റെയോ ഊർജ്ജ മാറ്റത്തിന്റെ സന്തുലിതാവസ്ഥയും അതിന്റെ അതിർത്തിയിലുടനീളം സറൌണ്ടിങ്ങുമായി ഉണ്ടാകുന്ന ഊർജ്ജ പ്രതിപ്രവർത്തനവും ഇത് നൽകുന്നുവെന്ന് എനിക്ക് പറയേണ്ടി വരും ഊർജ്ജവുമായി ബന്ധപ്പെട്ട ഏതൊരു ഉപകരണത്തെയും വിശകലനം ചെയ്യുന്നതിന് തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം മാത്രം അറിഞ്ഞാൽ മതിയെന്ന് ഇപ്പോൾ തോന്നിയേക്കാം കാരണം ഇത് സാധ്യമായ എല്ലാ തരത്തിലുള്ള ഊർജ്ജ പ്രതിപ്രവർത്തനങ്ങളുടെയും വ്യാപ്തി നിങ്ങൾക്ക് നൽകും എന്നാൽ നിങ്ങൾ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമത്തെ മാത്രം ആശ്രയിക്കുകയോ വിശ്വസിക്കുകയോ ആണെങ്കിൽ നിങ്ങൾ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമത്തെ അനുസരിക്കുന്ന രണ്ടാമത്തെ തരത്തിലുള്ള പെർപചുവൽ ചലന യന്ത്രം ഒരു PMM 2 രൂപകൽപ്പന ചെയ്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നയിച്ചേക്കാം എന്നിരുന്നാലും അത്തരമൊരു ഉപകരണം കെട്ടിച്ചമയ്ക്കുന്നതിന് നിങ്ങൾ പിന്തുടരുന്ന സമീപനം എന്തായാലും അത് എല്ലായ്പ്പോഴും പ്രായോഗികമായി പരാജയപ്പെടുന്നതിലേക്ക് നയിക്കും കാരണം ഇത് യഥാർത്ഥത്തിൽ തെർമോഡയനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തെ ലംഘിക്കുന്നു അതിനാൽ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം മാത്രം പര്യാപ്തമല്ല തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമം കൂടി നാം പരിഗണിക്കേണ്ടതുണ്ട് അത് പ്രായോഗിക പ്രക്രിയകൾക്ക് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യ മാനം നൽകുന്നു കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഹീറ്റ് എഞ്ചിനുകൾക്കോ റിവേഴ്സ്ഡ് ഹീറ്റ് എഞ്ചിനുകൾക്കോ പ്രവർത്തന പരിധി നൽകുന്നു ഇപ്പോൾ മുമ്പത്തെ പ്രഭാഷണത്തിൽ നിങ്ങളെ എൻട്രോപ്പി എന്ന ആശയം പരിചയപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാന തെർമോഡയനാമിമിക്സിൽ നിന്ന് എൻട്രോപ്പി എന്ന ആശയം നിങ്ങൾക്ക് ഇതിനകം അറിയാമെന്ന് എനിക്ക് പറയേണ്ടി വരും എന്നാൽ നമ്മൾ അത് അവലോകനം ചെയ്തു ക്ലോസ്ഡ് ഓപ്പൺ സിസ്റ്റത്തിനായുള്ള എൻട്രോപ്പിയുടെ മൂല്യം എങ്ങനെ കണക്കാക്കാം എൻട്രോപ്പി അടിസ്ഥാനമാക്കിയുള്ള വിശകലനം എങ്ങനെ നടത്താം എന്ന് നമ്മൾ കണ്ടു കൂടാതെ നമ്മൾ പ്രയാസകരമായ രണ്ട് റിലേഷൻസ് ഡിറൈവ് ചെയ്തു അത് അടുത്ത മൊഡ്യൂളിൽ വളരെ ഉപയോഗപ്രദമാകും അടുത്ത ആഴ്ചയിൽ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കും പക്ഷേ എൻട്രോപ്പി അടിസ്ഥാനമാക്കിയുള്ള വിശകലനം ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കാം കാരണം ഒരു പ്രോപ്പർട്ടി എന്ന നിലയിൽ എൻട്രോപ്പി അൽപ്പം ആശയകുഴപ്പം ഉണ്ടാക്കുന്നതാണ് അതിനാൽ തെർമോഡൈനാമിക് സിസ്റ്റങ്ങളുടെ രണ്ടാമത്തെ നിയമ അധിഷ്ഠിത വിശകലനം നടത്തുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗമുണ്ട് അത് എക്സർജി അല്ലെങ്കിൽ വർക്ക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ചിലപ്പോൾ അവൈലബിലിറ്റി എന്ന് വിളിക്കുന്നു ഇന്നത്തെ പ്രഭാഷണത്തിൽ വളരെ രസകരമായ ഈ എക്സർജി എന്ന ആശയം നമ്മൾ അവലോകനം ചെയ്യാൻ പോകുന്നു ഒരു ഹീറ്റ് എഞ്ചിൻ പോലുള്ള സാഹചര്യം നമ്മൾ പെട്ടെന്ന് കാണുന്നു ഇവിടെ ഉയർന്ന താപനില സോഴ്സുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ട് ഇത് TH താപനിലയിൽ ആണ് കുറഞ്ഞ താപനില സിങ്ക് TL താപനിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് കരുതുക ഈ ഉയർന്ന താപനില സോഴ്സ് ഇൽ നിന്ന് ഈ അളവിൽ താപം സ്വീകരിക്കുന്നു അതിന്റെ ഒരു ഭാഗം വർക്കായി പരിവർത്തനം ചെയ്യുകയും ഇതിന്റെ ഒരു ഭാഗം കുറഞ്ഞ താപനില സിങ്കിലേക്ക് നിരസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തെർമോഡൈനാമിക്സിന്റെ ആദ്യത്തെ നിയമം എന്ന ആശയം ഉപയോഗിച്ച് ഹീറ്റും വർക്ക് ട്രാൻസ്ഫറും തമ്മിൽ നമുക്ക് കുറച്ച് ബാലൻസ് ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾക്കറിയാം അതായത് ഈ ഹീറ്റ് എഞ്ചിൻ ഒരു സൈക്കിളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആ ആശയം ഉപയോഗിച്ച് നമുക്ക് ഈ ഹീറ്റ് എഞ്ചിന്റെ കാര്യക്ഷമത നിർവചിക്കാം ആദ്യ നിയമം പ്രയോഗിക്കുന്നതിനാൽ നമുക്ക് ലഭിക്കുന്നത് ഇപ്രകാരമാണ് ഇപ്പോൾ നിങ്ങളുടെ Qout 0 ആണെങ്കിൽ നിങ്ങളുടെ കാര്യക്ഷമത 1 ന് തുല്യമായിരിക്കും അതിനർത്ഥം ഈ Qin മുഴുവൻ ഭാഗവും ഔട്ട്പുട്ട് വർക്കിലേക്ക് പരിവർത്തനം ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് 100 കാര്യക്ഷമമായ എഞ്ചിനെ നിർവചിക്കാം എന്നിരുന്നാലും ഒരിക്കലും സാധ്യമല്ലാത്ത തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമമനുസരിച്ച് ഈ ഇൻപുട്ട് താപത്തിന്റെ മുഴുവൻ ഭാഗവും നമുക്ക് ഒരിക്കലും വർക്കായിട്ട് പരിവർത്തനം ചെയ്യാൻ കഴിയില്ല ചിലതരം താപ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം മാത്രമല്ല ഈ ഇൻപുട്ട് എനർജിയുടെ ഒരു ഭാഗം മാത്രമേ പരിവർത്തനം ചെയ്യാൻ കഴിയൂ അത് നമുക്ക് തെർമോഡയനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തിൽ നിന്ന് ഇപ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം പരിവർത്തനം ചെയ്യാനാകും TH TL എന്നിവയിൽ പ്രവർത്തിക്കുന്ന ഈ രണ്ട് താപനില റിസർവോയറുകൾക്കിടയിൽ യഥാക്രമം നമുക്ക് ലഭിക്കുന്ന പരമാവധി കാര്യക്ഷമത നമ്മുടെ റിവേർസിബിൾ എഞ്ചിന് സമാനമാണ് അതിനാൽ കാർനോട്ട് സൈക്കിൾ ഉള്ള ഏതെങ്കിലും റിവേർസിബിൾ ഹീറ്റ് എഞ്ചിൻ ഒരു ഉദാഹരണമാണ് നമുക്ക് അറിയാം അതിന്റെ കാര്യക്ഷമത ഇപ്രകാരം ലഭിക്കുമെന്ന് അതിനാൽ നിങ്ങൾക്ക് നേടാനാകുന്ന പരമാവധി കാര്യക്ഷമതയാണിത് അല്ലെങ്കിൽ ഒരു തരത്തിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നേടാനാകുന്ന പരമാവധി ഔട്ട്പുട്ട് ഇതാണ് ഇവിടെ ηHErev എന്നത് എഞ്ചിന്റെ കാര്യക്ഷമതയാണ് Qin എന്നത് നിങ്ങൾ നൽകുന്ന താപത്തിന്റെ അളവാണ് നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം നിങ്ങളുടെ ഉയർന്ന താപനില റിസർവോയർ 1000 K താപനിലയിലും കുറഞ്ഞ താപനില റിസർവോയർ 300 K താപനിലയിലുമാണെന്ന് കരുതുക കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള മൂല്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിനാൽ ഈ ഹീറ്റ് എഞ്ചിൻ റിവേഴ്സിബിൾ ആണെങ്കിൽ അനുബന്ധ കാര്യക്ഷമത ഇപ്രകാരമായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ Qin 1 kJ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി വർക്ക് ഔട്ട്പുട്ട് ഇപ്രകാരമായിരിക്കും അതിനർത്ഥം നിങ്ങൾ എത്ര ശ്രമിച്ചാലും സറൌണ്ടിങ്ങിലേക്ക് കുറഞ്ഞത് 0 3 kJ താപനഷ്ടം ഉണ്ടാകും അതിനാൽ പരമാവധി ഇത് ഒരു റിവേർസിബിൾ എഞ്ചിനുള്ള സാഹചര്യമാണ് എഞ്ചിൻ ഇറവെർസിബിൾ ആണെങ്കിൽ നിങ്ങളുടെ കാര്യക്ഷമത ഇതിലും കുറവായിരിക്കും അതിനാൽ ഇത് എല്ലായ്പ്പോഴും ഇറവെർസിബിൾ എഞ്ചിന്റെ കാര്യക്ഷമതയേക്കാൾ കൂടുതലാണ് 0 7 അല്ലെങ്കിൽ 70 നമുക്ക് ലഭിക്കാവുന്ന പരമാവധി കാര്യക്ഷമതയാണ് ഈ 0 3 kJ ആണ് നമുക്ക് സാധ്യമായ ഏറ്റവും കുറഞ്ഞ ഹീറ്റ് റിജക്ഷൻ അതിനാൽ Qout എല്ലായ്പ്പോഴും വലുതായിരിക്കും അത് 0 3 kJ ആണ് Wnetout എല്ലായ്പ്പോഴും ചെറുതായിരിക്കും അത് 0 7 kJ ആണ് അതിനാൽ ഈ ഹീറ്റ് എഞ്ചിനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ കഴിയുന്ന പരമാവധി വർക്ക് ഔട്ട്പുട്ട് 0 7 kJ ആണ് അല്ലെങ്കിൽ 70 കാര്യക്ഷമതയാണ് നിങ്ങൾ എത്രതന്നെ ശ്രമിച്ചാലും ഇതിനെക്കാൾ ഉയർന്ന കാര്യക്ഷമതയോ ഈ 0 7 kJ നേക്കാൾ വലിയ വർക്ക് ഔട്ട്പുട്ടോ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല അതിനാൽ TH TL എന്നിവയുടെ ഈ പ്രത്യേക കോമ്പിനേഷനിലെ ഈ 1 kJ താപത്തിന് പരമാവധി പ്രവർത്തന ശേഷി 0 7 kJ മാത്രമാണ് ഈ ഇൻപുട്ട് എനർജിയുടെ 70 ത്തിൽ കൂടുതലുള്ള ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും പ്രവർത്തനക്ഷമമാക്കാൻ കഴിയില്ല അതിനാലാണ് ഈ ഹീറ്റ് എഞ്ചിന്റെ പെർഫോർമൻസ് വിശകലനം ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യക്ഷമത മാത്രം നിർവചിക്കുന്നത് യുക്തിസഹമല്ല പകരം നമ്മൾ എല്ലായ്പ്പോഴും യഥാർത്ഥ ഹീറ്റ് എഞ്ചിന്റെ കാര്യക്ഷമത ഇതിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയുന്ന പരമാവധി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കണം അത് രണ്ടാമത്തെ നിയമ കാര്യക്ഷമത എന്ന ആശയത്തിലേക്ക് നയിക്കുന്നു സാധ്യമായ നിരവധി നിർവചനങ്ങൾ ഉള്ളതിനാൽ അത് ഇടയ്ക്കിടെ നിർവചിക്കാം ഈ പ്രത്യേക ഹീറ്റ് എഞ്ചിനായി ഇത് നിർവചിക്കാം അതായത് ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് തുടർന്ന് എഞ്ചിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ യഥാർത്ഥ എസ്റ്റിമേറ്റ് ഉണ്ട് അതിനാൽ രണ്ടാമത്തെ നിയമം അനുസരിച്ച് കാര്യക്ഷമത 0 9 ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു യഥാർത്ഥ ഹീറ്റ് എൻജിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഈ എഞ്ചിനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന യഥാർത്ഥ വർക്ക് ഔട്ട്പുട്ട് ഇതാണ് ഈ എഞ്ചിനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഇതാണ് ഇപ്പോൾ ഈ 0 63 kJ നിങ്ങൾ ഇതിനെ സാധ്യമായ പരമാവധി ഔട്ട്പുട്ടുമായി 0 7 kJ താരതമ്യപ്പെടുത്തുന്നു 1 kJ എന്ന ഐഡിയൽ പോസ്സിബിൾ മൂല്യവുമായിട്ടല്ല അതിനാൽ രണ്ടാമത്തെ നിയമ കാര്യക്ഷമത യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ കാര്യക്ഷമത അല്ലെങ്കിൽ പെർഫോർമൻസ് നിർവചിക്കുന്നതിനുള്ള കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ള മാർഗ്ഗം നൽകുന്നു രണ്ടാമത്തെ നിയമ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ഈ ആശയം ഇപ്പോൾ കണക്കിലെടുക്കുമ്പോൾ സാധ്യമായ പരമാവധി വർക്ക് പൊട്ടൻഷ്യൽ എന്താണെന്ന് കണക്കാക്കാൻ ശ്രമിക്കാം ഈ ഉദാഹരണത്തിലെ പോലെ നമ്മൾ നൽകുന്ന ഈ 1 kJ താപത്തിന് പരമാവധി ഈ 0 7 kJ പ്രവർത്തന ശേഷിയുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഈ 0 7 kJ യിൽ കൂടുതലുള്ള ഒന്നും താപമായിട്ടോ വർക്കായിട്ടോ മാറ്റുവാൻ കഴിയില്ല അതിനാൽ ഈ 1 kJ ഊർജ്ജത്തിന് അതായത് താപോർജ്ജത്തിന് 0 7 kJ മാത്രമേ പ്രവർത്തിക്കാനുള്ള ശേഷി ഉള്ളൂ ഈ വർക്ക് പൊട്ടൻഷ്യലിനെ ആണ് നമ്മൾ എക്സർജി എന്ന് വിളിക്കുന്നത് പോയിന്റ് 1 മുതൽ പോയിന്റ് 2 വരെ ഒരു പ്രക്രിയയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിമ്പിൾ കംപ്രസ്സബിൾ സിസ്റ്റം നമുക്ക് പരിഗണിക്കാം നമുക്ക് ഇതുപോലെ കാണിച്ചിരിക്കുന്ന ഒരു പിസ്റ്റൺ സിലിണ്ടർ ക്രമീകരണം ഉണ്ട് മർദ്ദം മാറുമ്പോൾ V1 എന്ന പ്രാരംഭ വോള്യത്തിൽ നിന്ന് V2 എന്ന ഫൈനൽ വോള്യത്തിലേക്ക് സിസ്റ്റം വികസിക്കുന്നു സിലിണ്ടറിന്റെ ആന്തരിക ഭാഗത്ത് പ്രവർത്തിക്കുന്ന മർദ്ദമാണ് P അതിനാൽ ഇതിൽ നിന്നുള്ള വർക്ക് ഔട്ട്പുട്ട് എത്രയാണ് P V എന്നിവ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കണക്കാക്കാം ഇപ്പോൾ ഈ പ്രത്യേക എഞ്ചിനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വർക്ക് ഔട്ട്പുട്ടാണിത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ W വിന്റെ മൂല്യം അല്ലെങ്കിൽ Wout ഞാൻ ഇന്റഗ്രേഷൻ പരിധികൾ 1 മുതൽ 2 വരെ നൽകേണ്ടതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയ ഈ Wout എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു അത് ഇവിടെ ഏത് ക്വാണ്ടിറ്റിയുടെ ഫങ്ക്ഷന് ആണ് അത് തീർച്ചയായും രണ്ട് അന്തിമ പോയിന്റുകളായ പ്രാരംഭ പോയിന്റ് 1 അവസാന പോയിന്റ് 2 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് പ്രാരംഭ സ്റ്റേറ്റിന്റെ ഒരു ഫങ്ക്ഷന് ആണ് ഇത് അന്തിമ സ്റ്റേറ്റിന്റെ ഒരു ഫങ്ക്ഷന് ആണ് അതായത് ഈ 1 2 എന്നിവയാണ് ഇന്റഗ്രേഷന്റെ രണ്ട് പരിധികൾ ഈ പിങ്ക് ലൈൻ പ്ലോട്ട് ചെയ്യുന്നതിനിടയിലോ അല്ലെങ്കിൽ പ്രക്രിയയ്ക്കിടയിലോ പിന്തുടരുന്ന PdV ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു അതായത് ഇത് പ്രോസസ്സ് പാതയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഔട്ട്പുട്ട് യഥാർത്ഥത്തിൽ മൂന്ന് ക്വാണ്ടിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രാരംഭ സ്റ്റേറ്റ് പോയിന്റ് അന്തിമ സ്റ്റേറ്റ് പോയിന്റ് ഈ 1 നും 2 നും ഇടയിൽ പിന്തുടർന്ന യഥാർത്ഥ പ്രക്രിയ ഗണിതശാസ്ത്രപരമായി ഇനിപ്പറയുന്ന രീതിയിൽ പ്രതിനിധീകരിക്കാം Wout f പ്രാരംഭ സ്റ്റേറ്റ് അന്തിമ സ്റ്റേറ്റ് പ്രോസസ്സ് പാത്ത് 1 നും 2 നും ഇടയിലുള്ളത് പോലെ നമ്മൾ ഇതുപോലൊരു പ്രക്രിയ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ വർക്ക് ഔട്ട്പുട്ട് വ്യത്യസ്തമായിരിക്കും അതേസമയം നമ്മൾ ഇതുപോലുള്ള ഒരു പ്രക്രിയ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ വർക്ക് ഔട്ട്പുട്ട് വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ രണ്ട് ഘട്ടങ്ങളായുള്ള ഒരു പ്രക്രിയ പിന്തുടരുന്നുവെന്ന് കരുതുക ഒരു ഘട്ടത്തിൽ ഇത് ഒരു സ്ഥിരമായ വോള്യമായി തുടരുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ ഉദാഹരണത്തിന് ഇതുപോലുള്ള കോൺസ്റ്റന്റ് പ്രഷർ പ്രക്രിയ അതിനാൽ നിങ്ങളുടെ വർക്ക് ഔട്ട്പുട്ട് വീണ്ടും വ്യത്യസ്തമായിരിക്കും കാരണം ഒരു PV പ്ലെയിനിൽ ഈ കർവിന് കീഴിലുള്ള പ്രദേശം ഒരു വർക്ക് ഔട്ട്പുട്ടാണെന്നും ഞാൻ ഇവിടെ വരച്ച വരികളിൽ ഓരോന്നും ഈ കർവിന് കീഴിലുള്ള വ്യത്യസ്ത ഏരിയയാണെന്നും നിങ്ങൾക്കറിയാം അതനുസരിച്ച് വർക്ക് ഔട്ട്പുട്ട് വ്യത്യസ്തമായിരിക്കും അതിനാൽ ഔട്ട്പുട്ട് തീർച്ചയായും പ്രോസസ്സ് പാതയെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നിശ്ചയിച്ച പ്രാരംഭ അവസാന സ്റ്റേറ്റ് പ്രാരംഭ സ്റ്റേറ്റ് അവസാന സ്റ്റേറ്റ് എന്നിവ ഫിക്സ് ചെയ്തുകഴിഞ്ഞാൽ ഇവ യഥാക്രമം 1 2 എന്നിവയാണ് പിന്നെ ഏത് തരത്തിലുള്ള പ്രക്രിയയ്ക്കാണ് നിങ്ങൾക്ക് പരമാവധി വർക്ക് ഔട്ട്പുട്ട് ലഭിക്കാൻ പോകുന്നത് അതെ ഉത്തരം നിങ്ങൾക്കറിയാം പ്രക്രിയ പഴയപടിയാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സാധ്യമായ പരമാവധി ഔട്ട്പുട്ട് ലഭിക്കും അതിനാൽ ഈ പ്രക്രിയ പഴയപടിയാക്കാവുന്ന ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യമായ പരമാവധി ഔട്ട്പുട്ട് ലഭിക്കും അത് ഇപ്രകാരമായിരിക്കും അതായത് ഈ രണ്ട് സ്റ്റേറ്റ് പോയിന്റുകൾക്കിടയിലാണ് നിങ്ങൾക്ക് പരമാവധി ഔട്ട്പുട്ട് ലഭിക്കുന്നത് ഒരു റിവേർസിബിൾ പാത്ത് പിന്തുടരുമ്പോൾ മാത്രമേ ആ റിവേർസിബിൾ പാത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രക്രിയകളുമായോ ഏതെങ്കിലും പ്രക്രിയകളുടെ സംയോജനവുമായി ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാൽ അത് റിവേർസിബിൾ ആകുന്നിടത്തോളം സമയം ഈ രണ്ട് സ്റ്റേറ്റ് പോയിന്റുകൾക്കിടയിൽ സാധ്യമായ പരമാവധി വർക്ക് ഔട്ട്പുട്ട് നേടാൻ പോകുന്നു ഇപ്പോൾ ഈ അന്തിമ സ്റ്റേറ്റിന്റെ നിയന്ത്രണവും ഞാൻ നീക്കംചെയ്യുന്നു പോയിന്റ് 1 മുതൽ ആരംഭിക്കുന്ന ഒരു റിവേർസിബിൾ പാതയാണ് നിങ്ങൾ പിന്തുടരുന്നത് അപ്പോൾ പോയിന്റ് 2 ന്റെ ആത്യന്തിക മൂല്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന പോയിന്റ് 2 ന്റെ ആത്യന്തിക സ്ഥാനം എന്താണ് ഉദാഹരണത്തിന് ഈ പിസ്റ്റൺ സിലിണ്ടർ ക്രമീകരണത്തിൽ നിങ്ങൾ ഒരു പ്രാരംഭ സമ്മർദ്ദം ഉപയോഗിച്ച് ആരംഭിച്ചുവെന്ന് കരുതുക നിങ്ങളുടെ P1 ന്റെ പ്രാരംഭ മൂല്യം 10 ബാർ ആണ് അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥമായി നേടാൻ കഴിയുന്ന P2 ന്റെ ഏറ്റവും ചെറിയ മൂല്യം എന്തായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷേ ഈ പിസ്റ്റൺ സിലിണ്ടറിന് നേടാൻ കഴിയുന്നവ തീർച്ചയായും പോയിന്റ് 2 ലെ മർദ്ദത്തിന്റെ ഏറ്റവും ചെറിയ മൂല്യം അന്തരീക്ഷമർദ്ദമായിരിക്കും കാരണം നിങ്ങൾക്ക് അന്തരീക്ഷത്തിനപ്പുറം പോകാൻ കഴിയില്ല കാരണം ഇവിടെ പുറത്ത് നിങ്ങൾക്ക് അന്തരീക്ഷമർദ്ദം പ്രവർത്തിക്കുന്നു അതിനുള്ളിൽ ഈ ജോലി നടക്കുന്നു നിങ്ങളുടെ പിസ്റ്റണിന്റെ ഉള്ളിലെ മർദ്ദം അന്തരീക്ഷമർദ്ദത്തിന്റെ മൂല്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഒരുതരം താപ സന്തുലിതാവസ്ഥയിലെത്തുന്നു അല്ലെങ്കിൽ സിസ്റ്റവും സറൌണ്ടിങ്ങും താപ സന്തുലിതാവസ്ഥയിലെത്തിയിരിക്കുന്നു അതിനാൽ ഈ പിസ്റ്റണിന്റെ തുടർചലനങ്ങളൊന്നും സാധ്യമല്ല അതിനാൽ പിസ്റ്റണിന് എത്താൻ കഴിയുന്ന സാധ്യമായ ഏറ്റവും ചെറിയ സ്ഥാനം അന്തരീക്ഷമർദ്ദമാണ് അതിനാൽ സിസ്റ്റത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെർമോഡൈനാമിക് സന്തുലിതാവസ്ഥയിലെത്താൻ സിസ്റ്റത്തെ അനുവദിക്കുന്ന ഒന്നായിരിക്കണം ഈ പോയിന്റ് 2 നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ഉദാഹരണം പോലെ നമുക്ക് മെക്കാനിക്കൽ സന്തുലിതാവസ്ഥ മാത്രമാണ് പ്രസക്തം പക്ഷേ സിസ്റ്റത്തിൽ ഇനിയും നിരവധി സാധ്യതകൾ അവശേഷിക്കുന്നു ഉദാഹരണത്തിന് സിസ്റ്റം അന്തരീക്ഷമർദ്ദത്തിൽ എത്തുമ്പോൾ ഇപ്പോഴും ഇതിന് 10 ms വേഗത കൈവരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ വേഗത വർക്കായിട്ട് പരിവർത്തനം ചെയ്യാൻ കഴിയുമോ തീർച്ചയായും നമുക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും ഇതിന്റെ ഗതികോർജ്ജത്തിന് അനുസൃതമായി നമുക്ക് നേടാനാകുന്ന വർക്ക് ഔട്ട്പുട്ട് ഇപ്രകാരമാണ് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു യൂണിറ്റ് മാസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റം ഡാറ്റത്തിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിലാണെങ്കിൽ അനുബന്ധ പൊട്ടൻഷ്യൽ ഊർജ്ജത്തെ വർക്കായിട്ട് പരിവർത്തനം ചെയ്യാം അതിന്റെ മാഗ്നിറ്യൂഡ് ഇപ്രകാരമായിരിക്കും അതിനാൽ സിസ്റ്റം സറൌണ്ടിങ്ങുമായി തികച്ചും താപ സന്തുലിതാവസ്ഥയിലാകാത്തിരിക്കുന്നിടത്തോളം കാലം സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ഔട്ട്പുട്ട് ഉത്പാദിപ്പിക്കുന്നതിനുള്ള പുതിയ മാർഗ്ഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും സിസ്റ്റം സറൌണ്ടിങ്ങുമായി തികച്ചും താപ സന്തുലിതാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് സാധ്യമായ പരമാവധി വർക്ക് ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ അവസ്ഥയെ നമ്മൾ നിർജ്ജീവാവസ്ഥ എന്ന് വിളിക്കുന്നു ഒരു സിസ്റ്റം സറൌണ്ടിങ്ങുമായി തികച്ചും താപ സന്തുലിതാവസ്ഥയിലായിരിക്കുമ്പോൾ അത് താപ സന്തുലിതാവസ്ഥയിലാണെന്നും മെക്കാനിക്കൽ സന്തുലിതാവസ്ഥയിലാണെന്നും അതുപോലെ സാധ്യമായ എല്ലാ സന്തുലിതാവസ്ഥയിലും ഉള്ള അവസ്ഥയെ ഡെഡ് സ്റ്റേറ്റ് എന്ന് സൂചിപ്പിക്കുന്നു ഉദാഹരണം പോലെ നമ്മൾ പറഞ്ഞു സിസ്റ്റം സറൌണ്ടിങ്ങിനെനേക്കാൾ ഉയർന്ന താപനിലയിലാണെങ്കിൽ എന്തു സംഭവിക്കും നിങ്ങൾക്ക് ഒരു ഹീറ്റ് എഞ്ചിൻ സിസ്റ്റം ടെംപറേച്ചറിനും സറൌണ്ടിങ് ടെംപറേച്ചറിനും ഇടയിൽ എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാനും ഇതിൽ നിന്ന് കുറച്ച് വർക്ക് ഔട്ട്പുട്ട് നേടാനും കഴിയും സിസ്റ്റത്തിലെ മർദ്ദം കൂടുതലാണെങ്കിൽ കുറച്ച് അധിക വർക്ക് ലഭിക്കുന്നതിന് പിസ്റ്റണിനെ കുറച്ചുകൂടി നീങ്ങാൻ നിങ്ങൾ അനുവദിക്കാം സറൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സിസ്റ്റത്തിന് ചില ഗതികോർജ്ജമോ പൊട്ടൻഷ്യൽ ഊർജ്ജമോ ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് കുറച്ച് വർക്ക് ഔട്ട്പുട്ട് എക്സ്ട്രാക്റ്റു ചെയ്യാനാകും അതിനാൽ ഈ നിർജ്ജീവാവസ്ഥയിലെത്താൻ സിസ്റ്റം തികച്ചും താപ സന്തുലിതാവസ്ഥയിലായിരിക്കണം സിസ്റ്റം ഒരിക്കൽ നിർജ്ജീവാവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ ഈ പ്രാരംഭ പോയിന്റ് 1 മുതൽ സിസ്റ്റത്തിൽ നിന്ന് സാധ്യമായ പരമാവധി വർക്ക് ഔട്ട്പുട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രാരംഭ പോയിന്റ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാധ്യമായ പരമാവധി വർക്ക് ഔട്ട്പുട്ട് എത്രയാണ് എപ്പോഴാണ് ഈ Wout പരമാവധി ആകുന്നത് പിന്തുടരുന്ന പ്രോസസ്സ് പാത പഴയപടിയാക്കാവുന്നതും രണ്ടാമത്തേത് നിർജ്ജീവമായ അവസ്ഥയേയോ സറൌണ്ടിങ്ങിന്റെ അവസ്ഥയേയോ സൂചിപ്പിക്കുന്ന അന്തിമ അവസ്ഥ ആണ് തുടർന്ന് പ്രാരംഭ അവസ്ഥയുമായി പൊരുത്തപ്പെടുന്ന സിസ്റ്റത്തിൽ നിന്ന് സാധ്യമായ പരമാവധി വർക്ക് ഔട്ട്പുട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തി അതാണ് നമ്മൾ എക്സർജി എന്ന് നിർവചിക്കുന്നത് നിർദ്ദിഷ്ട പ്രാരംഭ അവസ്ഥയിൽ നിന്ന് അന്തിമ അവസ്ഥയിലേക്ക് പഴയപടിയാക്കാനാകുന്ന പ്രക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ ഒരു സിസ്റ്റത്തിന് നൽകാൻ കഴിയുന്ന പരമാവധി വർക്കിനെ എക്സർജി എന്ന് സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇത് ആ സിസ്റ്റത്തിന്റെ നിർദ്ദിഷ്ട പ്രാരംഭ അവസ്ഥയുടെ എക്സർജി ആണെന്ന് ഓരോ സ്റ്റേറ്റ് പോയിന്റിനും അനുസരിച്ച് സിസ്റ്റത്തിന് എക്സർജി ഉണ്ടാകാം എക്സർജി എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് അളവാണ് അതിനാൽ ഈ പ്രാരംഭ സ്റ്റേറ്റ് പോയിന്റ് നിർജ്ജീവാവസ്ഥയിൽ അല്ലാത്തപ്പോൾ ചില വർക്ക് ഔട്ട്പുട്ട് ഉൽപാദിപ്പിക്കുന്നതിനുള്ള ചില മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ കഴിയും സിസ്റ്റം സറൌണ്ടിങ്ങിനെക്കാളും കുറഞ്ഞ താപനിലയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സറൌണ്ടിങ്ങിനെ ഒരു സോഴ്സ് ആയും സിസ്റ്റത്തെ ഒരു സിങ്കായും ഉപയോഗിച്ച് ഒരു ഹീറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനും ഇതിൽ നിന്ന് കുറച്ച് വർക്ക് ഔട്ട്പുട്ട് നേടാനും കഴിയും അതിനാൽ സിസ്റ്റം സറൌണ്ടിങ്ങിനെക്കാൾ കുറഞ്ഞ താപനിലയിലോ സറൌണ്ടിങ്ങിനെക്കാൾ താഴ്ന്ന മർദ്ദത്തിലോ ആയിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് വർക്ക് ഔട്ട്പുട്ട് നേടാൻ സാധിക്കും അതിനാൽ എക്സർജി എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് കൂടാതെ ആ പ്രാരംഭ അവസ്ഥയിൽ നിന്ന് ഒരു നിർജ്ജീവമായ പ്രക്രിയ നിർവ്വഹിച്ചുകഴിഞ്ഞാൽ ഒരു നിശ്ചിത സ്റ്റേറ്റ് പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി വർക്ക് ഔട്ട്പുട്ടിനെ ഇത് സൂചിപ്പിക്കുന്നു അതിനാൽ എക്സർജി ഒരു നിശ്ചിത സ്റ്റേറ്റ് പോയിന്റിൽ ഒരു സിസ്റ്റത്തിന്റെ പ്രവർത്തന ശേഷി നിങ്ങൾക്ക് നൽകുന്നു ഒപ്പം ഓരോ സ്റ്റേറ്റ് പോയിന്റിനും നമുക്ക് വ്യത്യസ്തമായി എക്സർജി കണക്കാക്കാം ചില സാഹിത്യങ്ങളിൽ ഈ എക്സർജിയെ അവൈലബിൾ വർക്ക് അല്ലെങ്കിൽ ലഭ്യത എന്ന് പരാമർശിക്കപ്പെടുന്നുവെന്ന് ഞാൻ ഇവിടെ പറയേണ്ടതുണ്ട് പ്രത്യേകിച്ചും ചില പഴയ പുസ്തകങ്ങൾ അവൈലബിലിറ്റി എന്ന പദം ഉപയോഗിക്കുന്നു എന്നാൽ ഇപ്പോൾ ശാസ്ത്ര സമൂഹം എക്സർജി എന്ന ഈ പദം മാത്രം ഉപയോഗിക്കുന്നതിന് സമ്മതം നൽകിയിട്ടുണ്ട് അതിനാൽ നമ്മൾ ഈ എക്സർജി എന്ന പദവും ഉപയോഗിക്കാൻ പോകുന്നു എന്നാൽ ചില പുസ്തകങ്ങളിൽ ഏതെങ്കിലും അധ്യായത്തിന്റെ ശീർഷകത്തിൽ അവൈലബിലിറ്റി എന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതേ കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എക്സർജി അതുകൊണ്ട് ആശയക്കുഴപ്പത്തിലാകരുത് ഇപ്പോൾ എക്സർജിയുമായി ചേർന്ന് പൊതുവായി നിർവചിക്കേണ്ട മറ്റ് നിരവധി പദങ്ങളുണ്ട് അവ വേഗത്തിൽ അവലോകനം ചെയ്യാം തുടക്കത്തിൽ V1 വോളിയം ഉള്ള മറ്റൊരു പിസ്റ്റൺ സിലിണ്ടർ ക്രമീകരണം നമുക്ക് പരിഗണിക്കാം കൂടാതെ V2 എന്ന അന്തിമ സ്റ്റേറ്റ് പോയിന്റിൽ എത്താൻ ഇത് ചില പ്രക്രിയകൾക്ക് വിധേയമാകുന്നു ഈ സിലിണ്ടറിന്റെ ആന്തരിക ഭാഗത്ത് പ്രവർത്തിക്കുന്ന മർദ്ദം P ആണ് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ സിസ്റ്റം വികസിപ്പിക്കുന്നതിന് വേണ്ടിയും കുറച്ച് വർക്ക് ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നതിനും സറൌണ്ടിങ് പ്രഷറിനെക്കാൾ വലുതായിരിക്കണം ഈ P ഇപ്പോൾ നമുക്ക് അറിയാം സിസ്റ്റം ഉത്പാദിപ്പിക്കാൻ പോകുന്ന വർക്ക് ഔട്ട്പുട്ട് അതാണ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന W എന്നിരുന്നാലും യഥാർത്ഥത്തിൽ അന്തരീക്ഷമർദ്ദത്തിനെതിരായി ഈ വർക്ക് നടക്കുന്നു അതിനാൽ ചില വർക്കുകൾ യഥാർത്ഥത്തിൽ സറൌണ്ടിങ് മർദ്ദത്തെ മറികടക്കാൻ നമുക്ക് നഷ്ടമായ ഈ ഇന്റഗ്രൽ PdV യുടെ ചില ഭാഗമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ ദൃശ്യവൽക്കരിക്കാൻ കഴിയും സിസ്റ്റത്തെക്കുറിച്ചും സറൌണ്ടിങ്ങിനെ കുറിച്ചും സംസാരിക്കുന്നതിനുപകരം നമുക്ക് രണ്ട് സിസ്റ്റങ്ങളുണ്ടെന്ന് നമുക്ക് പറയാംകോൺസ്റ്റന്റ് പ്രഷർ P0 ആയ സറൌണ്ടിങ് ആണ് രണ്ടാമത്തെ സിസ്റ്റം ഇപ്പോൾ സിസ്റ്റം വോളിയം V1 ൽ നിന്ന് V2 ലേക്ക് മാറുമ്പോൾ സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ δV എന്ന വോള്യത്തിൽ മാറ്റം വരുന്നു δV V2 − V1 അതിനനുസരിച്ച് സറൌണ്ടിങ്ങിലും ഈ വോള്യത്തിൽ δV അളവിൽ മാറ്റമുണ്ടാകുന്നു അതിനാൽ വോളിയത്തിലെ ഈ പോസിറ്റീവ് മാറ്റം കാരണം സിസ്റ്റം ഒരു പോസിറ്റീവ് വർക്ക് ഔട്ട്പുട്ട് നൽകുമ്പോൾ വോളിയത്തിലെ ഈ നെഗറ്റീവ് മാറ്റം കാരണം സറൌണ്ടിങ്ങിൽ യഥാർത്ഥത്തിൽ ഒരു വർക്ക് ഇൻപുട്ട് ഉണ്ട് അതിനാൽ സിസ്റ്റം ഉത്പാദിപ്പിക്കുന്ന W ന്റെ ഒരു ഭാഗം ചുറ്റുമുള്ള മർദ്ദം P0 യുടെ പ്രഭാവത്തെ മറികടക്കാൻ സറൌണ്ടിങ് ഉപയോഗിക്കുന്നു ഇതിനെ സറൌണ്ടിങ് വർക്ക് എന്ന് വിളിക്കുന്നു സറൌണ്ടിങ് വർക്ക് എന്നത് ചുറ്റുമുള്ളവ ഉപയോഗിക്കുന്ന ഈ പ്രത്യേക വർക്കിന്റെ ഒരു ഭാഗത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇതിനെ സറൌണ്ടിങ് പ്രഷർ P0 എന്ന് വിളിക്കാം ഇത് എല്ലായ്പ്പോഴും സ്ഥിരമാണെന്ന്കണക്കാക്കാം അതിനാൽ ഇതിനെ ഇങ്ങനെ പരാമർശിക്കാം Surrounding work Po V2 − V1 ബൌണ്ടറിയുടെ ചലനം കാരണം സറൌണ്ടിങ്ങിലേക്ക് നല്കുന്ന വർക്കിന്റെ അളവാണിത് അതിനാൽ നമുക്ക് ലഭിക്കുന്ന യഥാർത്ഥ വർക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഉപയോഗപ്രദമായ വർക്ക് ഔട്ട്പുട്ട് എന്താണ് അതായത് ഉപയോഗപ്രദമായ വർക്ക് എന്നാണ് നമ്മൾ വിളിക്കുന്നത് സ്റ്റൌണ്ടിങ് വർക്കിനെ സൂചിപ്പിക്കാൻ നമുക്ക് Wsurr എന്ന ചിഹ്നം ഉപയോഗിക്കാം അതിനാൽ ഉപയോഗപ്രദമായ വർക്കിനെ സൂചിപ്പിക്കാൻ നമ്മൾ Wu എന്ന ചിഹ്നം ഉപയോഗിക്കും അത് സിസ്റ്റം ഉല്പാദിപ്പിക്കുന്ന യഥാർത്ഥ വർക്ക് ആണ് സറൌണ്ടിങ് വർക്ക് അതായത് അതിനാൽ നിങ്ങളുടെ സിസ്റ്റം ഉൽപാദിപ്പിക്കുന്ന യഥാർത്ഥ വർക്കിന്റെ അളവ് എന്തുതന്നെയായാലും ചുറ്റുമുള്ള മർദ്ദത്തെ അല്ലെങ്കിൽ അന്തരീക്ഷമർദ്ദത്തെ മറികടക്കാൻ ശരിക്കും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇതേ അളവിൽ വർക്ക് നഷ്ടം സംഭവിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇത്ര വർക്ക് മാത്രമേ ലഭിക്കൂ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സറൌണ്ടിങ് വർക്ക് വളരെ ചെറുതോ അല്ലെങ്കിൽ തീരെ ചെറുതോ ആയിരിക്കാം എന്നാൽ പക്ഷേ വീണ്ടും ചില സാഹചര്യങ്ങളിൽ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നു അതിനുപുറമെ സറൌണ്ടിങ് വർക്ക് എല്ലായ്പ്പോഴും ഒരു നഷ്ടമായിരിക്കില്ല സിസ്റ്റത്തിന്റെ വോളിയം യഥാർത്ഥത്തിൽ കുറയുന്ന സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുക അതായത് V2 V1 എന്നാൽ നിങ്ങളുടെ സറൌണ്ടിങ് വർക്കിന്റെ കാര്യമോ നിങ്ങളുടെ Wsurr യഥാർത്ഥത്തിൽ നെഗറ്റീവ് ആണ് അതായത് Wsurr 0 Wu W − Wsurr W Po V1 - V2 ഈ സാഹചര്യത്തിൽ V1 - V2 ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് അവിടെ സിസ്റ്റത്തിന്റെ ഈ വോള്യത്തിൽ കുറവു സംഭവിക്കുന്നു അതിനാൽ യഥാർത്ഥത്തിൽ സറൌണ്ടിങ് വർക്ക് സഹായിക്കും അതായത് നിങ്ങൾ ഒരു കംപ്രഷൻ വർക്ക് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ അധിക മർദ്ദം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ യഥാർത്ഥ വർക്കിന്റെ ആവശ്യകത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു കൂടാതെ നിങ്ങളുടെ W നിങ്ങളുടെ ഉപയോഗപ്രദമായ വർക്കിനെക്കാൾ കുറവായിരിക്കും ഒപ്പം സറൌണ്ടിങ് വർക്കിൽ നിന്ന് നിങ്ങൾ അത് നേടുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ സിസ്റ്റത്തിൽ മൂവിങ് ബൌണ്ടറി വർക്ക് ഉൾപ്പെടുന്നില്ലെങ്കിൽ സറൌണ്ടിങ് വർക്കും ഉൾപ്പെടില്ല നിങ്ങൾ ഒരു റിജിഡ് സിസ്റ്റത്തെക്കുറിച്ചോ റിജിഡ് ബോഡിയെ കുറിച്ചോ അതുമല്ലെങ്കിൽ സ്റ്റെഡി ഫ്ലോ ഉപകരണത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ വോളിയത്തിൽ മാറ്റമൊന്നുമില്ല അതിനാൽ സറൌണ്ടിങ് വർക്കും ഇല്ല കൂടാതെ നിങ്ങൾ ഒരു സൈക്ലിക്ക് ഉപകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സൈക്ലിക്ക് പ്രക്രിയയിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ആരംഭിക്കുകയും നിരവധി സ്റ്റേറ്റിലൂടെ കടന്നുപോകുകയും ആ സ്റ്റേറ്റ് പോയിന്റിലേക്ക് തിരികെ മടങ്ങുകയും ചെയ്യും അതിനാൽ ഒരു സൈക്ലിക് സിസ്റ്റത്തിന്റെ വോള്യത്തിലെ ആകെ മാറ്റം എത്രയാണ് അത് 0 ആണ് അതിനാൽ സറൌണ്ടിങ് വർക്ക് ഒന്നുമില്ല ഒരു സൈക്കിളിന്റെ പ്രക്രിയയ്ക്കിടെ സിസ്റ്റത്തിന് ചില സറൌണ്ടിങ് വർക്ക് നഷ്ടപ്പെടുന്നതായി നിങ്ങൾക്ക് ഈ രീതിയിൽ ദൃശ്യവൽക്കരിക്കാൻ കഴിയും അതേസമയം അതേ സൈക്കിളിൽ ഒരേ അളവിലുള്ള സറൌണ്ടിങ് നേടുകയോ മറ്റേതെങ്കിലും പ്രക്രിയ ചെയ്യുകയോ ചെയ്യുന്നു അതിനാൽ ഒരു പൂർണ്ണ സൈക്കിളിൽ സറൌണ്ടിങ് വർക്ക് അല്ലെങ്കിൽ നെറ്റ് സറൌണ്ടിങ് വർക്ക് 0 ആണ് അതിനാൽ വിശകലന സമയത്ത് ഇത് പരിഗണിക്കേണ്ടതില്ല എന്നിരുന്നാലും സിസ്റ്റം അതിർത്തിയുടെ ചലനം നടക്കുന്ന ഒരൊറ്റ പ്രക്രിയയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ സറൌണ്ടിങ് വർക്ക് പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഉപയോഗപ്രദമായ വർക്ക് സറൌണ്ടിങ് വർക്കിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അടുത്ത പദം നമുക്ക് ആശങ്കയുള്ളത് റിവേർസിബിൾ വർക്കിനെ കുറിച്ച് ആണ് ഒരു നിർദ്ദിഷ്ട പ്രാരംഭ അന്തിമ സ്റ്റേറ്റ് പോയിന്റുകൾക്കിടയിൽ നമ്മൾ ഒരു റിവേർസിബിൾ പ്രക്രിയ നടത്തുമ്പോൾ ലഭിക്കുന്ന ഉപയോഗപ്രദമായ വർക്കിന്റെ പരമാവധി മൂല്യത്തെ റിവേർസിബിൾ വർക്ക് സൂചിപ്പിക്കുന്നു അതായത് Wrev Wu | 1rev→2 കാരണം റിവേർസിബിൾ പ്രോസസ് നിങ്ങൾക്ക് നൽകിയ 2 സ്റ്റേറ്റ് പോയിന്റുകൾക്കിടയിൽ പരമാവധി വർക്ക് ഔട്ട്പുട്ട് നൽകും തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ് പോയിന്റുകൾക്കിടയിലുള്ള ഉപയോഗപ്രദമായ വർക്കിന്റെ ഈ പരമാവധി മൂല്യത്തെ Wrev അല്ലെങ്കിൽ റിവേർസിബിൾ വർക്ക് എന്ന് സൂചിപ്പിക്കുന്നു ഈ അന്തിമ സ്റ്റേറ്റ് ഡെഡ് സ്റ്റേറ്റ് ആകുമ്പോൾ എന്തുസംഭവിക്കും പിന്നെ ഇത് നമ്മൾ പൊതുവായി പൂജ്യം എന്ന് വിളിക്കുന്ന നിർജ്ജീവാവസ്ഥയിലേക്കാണ് പോകുന്നത് തുടർന്ന് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന പരമാവധി വർക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതാണ് എക്സർജി അതിനാൽ എക്സർജി എന്നത് റിവേർസിബിൾ വർക്കിന്റെ പരമാവധി മൂല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അന്തിമ സ്റ്റേറ്റ് നിർജ്ജീവാവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന റിവേർസിബിൾ വർക്ക് ആണ് അതിനാൽ നമ്മൾ നമ്മുടെ പ്രാരംഭ പോയിന്റിൽ നിന്ന് ആരംഭിക്കുകയും ഒരു റിവേഴ്സിബിൾ പ്രക്രിയയെത്തുടർന്ന് നിർജ്ജീവാവസ്ഥയിലേക്ക് പോകുകയും ചെയ്യുന്നു നമുക്ക് ലഭിക്കുന്ന ഏതൊരു റിവേർസിബിൾ വർക്കും എക്സർജി ആകുന്നു അതിനാൽ ഇത് എക്സർജിയുടെ മറ്റൊരു നിർവചനമാണ് റിവേർസിബിൾ വർക്കും ഉപയോഗപ്രദമായ വർക്കും തമ്മിലുള്ള വ്യത്യാസം ഇർറിവെർസിബിലിറ്റിയെ സൂചിപ്പിക്കുന്നു ഞാൻ സാധാരണയായി I എന്ന ചിഹ്നം ഉപയോഗിക്കുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇർറിവെർസിബിലിറ്റി എന്ന പദത്തിലേക്ക് തിരിച്ച് വരുമെന്ന് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിർവചനം ഉണ്ട് റിവേർസിബിൾ വർക്കും ഉപയോഗപ്രദമായ വർക്കും തമ്മിലുള്ള നിർവചനമാണ് ഇറവെഴ്സിബിലിറ്റി കാരണം നിങ്ങളുടെ പ്രായോഗിക പ്രക്രിയകൾ ഇറവെർസിബിൾ ആണെങ്കിൽ ഒരു വർക്ക് പ്രൊഡ്യൂസിങ് ഉപകരണത്തിനായുള്ള നിങ്ങളുടെ ഉപയോഗപ്രദമായ വർക്ക് റിവേഴ്സിബിൾ വർക്കിനെക്കാൾ കുറവായിരിക്കും ഇറവെർസിബിലിറ്റിയുടെ സാന്നിധ്യം കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടും അതിനാൽ ഒരു വർക്ക് പ്രൊഡ്യൂസിങ് ഉപകരണത്തിനായി നിങ്ങളുടെ ഇറവെർസിബിലിറ്റി ഇപ്രകാരമായിരിക്കും I Wrev - Wu ← for work producing device കാരണം ഒരു വർക്ക് പ്രൊഡ്യൂസിങ് ഉപകരണത്തിനായി ഇറവെർസിബിലിറ്റിയുടെ സാന്നിധ്യം കാരണം റിവേർസിബിൾ പ്രോസസ്സ് നിങ്ങൾക്ക് സാധ്യമായ പരമാവധി ഔട്ട്പുട്ട് നൽകുന്നു നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടും റിവേർസിബിൾ വർക്കും ഉപയോഗപ്രദമായ വർക്കും തമ്മിലുള്ള വ്യത്യാസം ഇറവെർസിബിലിറ്റി ആകുന്നു ഒരു പമ്പ് അല്ലെങ്കിൽ കംപ്രസ്സർ പോലുള്ള ഒരു വർക്ക് ഉപഭോഗ ഉപകരണത്തിനും ഇതിന് കഴിയുമെങ്കിലും ഇറവെർസിബിലിറ്റിയുടെ സാന്നിധ്യം കാരണം എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇറവെർസിബിലിറ്റിയുടെ സാന്നിധ്യം കാരണം വർക്കിന്റെ ആവശ്യകത കൂടുതലായിരിക്കും അതിനാൽ ഇറവെർസിബിലിറ്റി ഇനിപ്പറയുന്ന പ്രകാരം നിർവചിച്ചിരിക്കുന്നു I Wrev - Wu ← for work consuming device കാരണം റിവേർസിബിൾ പ്രോസസ്സ് ഒരു വർക്ക് ഉപഭോഗ ഉപകരണത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സാധ്യമായ വർക്ക് ഇൻപുട്ട് നൽകുന്നു അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു വർക്ക് ഉൽപാദന പ്രക്രിയയെക്കുറിച്ചോ അല്ലെങ്കിൽ വർക്ക് ഉപഭോഗ പ്രക്രിയയെക്കുറിച്ചാണോ എന്നതിനെ ആശ്രയിച്ച് ഇറവെർസിബിലിറ്റിയുടെ നിർവചനം പരിഗണിക്കേണ്ടതുണ്ട് ചില സമയങ്ങളിൽ റിവേഴ്സിബിൾ പ്രോസസും ഉപയോഗപ്രദമായ പ്രക്രിയയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ വ്യാപ്തി മാത്രമുള്ള ഒരു പൊതു നിർവചനം നമുക്ക് നിർവചിക്കാം I |Wrev - Wu| ഒരു വർക്ക് പ്രൊഡ്യൂസിങ് ഉപകരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ റിവേർസിബിൾ വർക്ക് കൂടുതലായിരിക്കും ഒരു വർക്ക് പ്രൊഡ്യൂസിങ് ഉപകരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ റിവേർസിബിൾ വർക്ക് കൂടുതലായിരിക്കും അതേസമയം വർക്ക് കൺസ്യൂമിങ് പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഉപയോഗപ്രദമായ വർക്ക് ഉയർന്നതായിരിക്കും അവയുടെ വ്യത്യാസം ഇറവെർസിബിലിറ്റി ആണ് അത് എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ അവതരിപ്പിച്ച എൻട്രോപ്പി ജനറേഷനെ ഈ ഇറവെർസിബിലിറ്റി ആയി ഇപ്പോൾ പരാമർശിക്കാം I ToSgen ഇവിടെ T0 എന്നത് സറൌണ്ടിങ് താപനില ആകുന്നു Sgen എന്നത് എൻട്രോപ്പി ജനറേഷന്റെ വ്യാപ്തി ആകുന്നു അതിനാൽ ഈ രീതിയിൽ നമുക്ക് ഇറവെർസിബിലിറ്റിയെ എൻട്രോപ്പി ജനറേഷനുമായി ബന്ധിപ്പിക്കാൻ കഴിയും എക്സർജിയും എൻട്രോപ്പി ജനറേഷനും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് നേടാൻ കഴിയും കാരണം അന്തിമ സ്റ്റേറ്റ് ഒരു നിർജ്ജീവാവസ്ഥയിലായിരിക്കുമ്പോൾ ഈ W റിവേർസിബിൾ എന്നത് സിസ്റ്റത്തിന്റെ എക്സർജിയെ സൂചിപ്പിക്കുന്നു അതിനാൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എക്സർജിയിലെ മാറ്റം എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം നിങ്ങളുടെ സിസ്റ്റം തുടക്കത്തിൽ ഒരു സ്റ്റേറ്റ് പോയിന്റിലാണ് ഉദാഹരണത്തിന് 1 മർദ്ദം P താപനില T മുതലായവ അതേസമയം സറൌണ്ടിങ് P0 T0 എന്നി അവസ്ഥയിലും അതുപോലെ മറ്റ് പാരാമീറ്ററുകൾ എന്തുതന്നെ ആയാലും ഈ സബ്സ്ക്രിപ്റ്റ് '0' എന്നത് നിർജ്ജീവാവസ്ഥയെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ സിസ്റ്റം അനന്തമായി ചെറിയ പ്രക്രിയയ്ക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യം നമുക്ക് പരിഗണിക്കാം അത് നിങ്ങൾക്ക് δW അളവിൽ വർക്ക് ഔട്ട്പുട്ട് നൽകുകയും δQ അളവിൽ സിസ്റ്റം ഹീറ്റ് നിരസിക്കുകയും ചെയ്യുന്നു ഇത് സിസ്റ്റം നിരസിച്ച താപത്തിന്റെ അളവാണ് ഇത് വർക്ക് ഔട്ട്പുട്ടിന്റെ അളവാണ് യഥാർത്ഥത്തിൽ ഇത് δWuseful ആണ് സിസ്റ്റം δW അളവിൽ വർക്ക് ഔട്ട്പുട്ട് ഉൽപാദിപ്പിക്കുന്നുവെന്ന് നമുക്ക് പറയാം സറൌണ്ടിങ് വർക്ക് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് δW useful ലഭിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് സറൌണ്ടിങ്ങിലേക്ക് താപ കൈമാറ്റവും വർക്ക് ട്രാൻസ്ഫറും നടക്കുന്നതായിട്ട് എടുക്കുന്നു അതിനാൽ നിങ്ങൾ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം എഴുതുകയാണെങ്കിൽ dE എന്ന സിസ്റ്റത്തിൽ സംഭരിച്ച ഊർജ്ജത്തിലെ മാറ്റം ഇതായിരിക്കുമെന്ന് നമുക്ക് എഴുതാം dE - δQ - δW ഇപ്പോൾ നമുക്ക് ഒരു സിംപിൾ കംപ്രസിബിൾ സിസ്റ്റം അനുമാനിക്കാം അതായത് സിസ്റ്റത്തിന് ഒരു തരത്തിലുള്ള ചലനമോ ഗുരുത്വാകർഷണ ഫലമോ ഇല്ല അത്തരം സന്ദർഭങ്ങളിൽ dE എന്നത് dU ആയി മാറുന്നു അതായത് ആന്തരിക ഊർജ്ജത്തിലെ മാറ്റം dU - δQ - δW P T മുതലായവയുടെ ഈ പ്രാരംഭ സാഹചര്യത്തിൽ ഈ സിസ്റ്റത്തിന്റെ എക്സർജി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങളുടെ δWu എന്തായിരിക്കും അത് ഇപ്രകാരമായിരിക്കും δWu δW - δWsurr δW - P0dV ഇവിടെ dV എന്നത് ഈ പ്രത്യേക പ്രക്രിയയ്ക്കിടെ സിസ്റ്റത്തിന്റെ അളവിലുള്ള ചെറിയ മാറ്റത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ സിംപിൾ കംപ്രസ്സബിൾ സിസ്റ്റത്തിനായി δW ഇപ്രകാരം എഴുതാം δWu PdV - P0dV അല്ലെങ്കിൽ നമുക്ക് ഈ PdV ഇങ്ങനെ എഴുതാം PdV δWu P0dV ഇനി നമുക്ക് താപ കൈമാറ്റം പരിഗണിക്കാം സിസ്റ്റത്തിൽ നിന്ന് സറൌണ്ടിങ്ങിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന താപം യഥാർത്ഥത്തിൽ സിസ്റ്റത്തിൽ നിന്ന് പോസിറ്റീവ് വർക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് നമ്മൾ ഈ താപം റിവേർസിബിൾ ഹീറ്റ് എഞ്ചിനിലേക്ക് വിതരണം ചെയ്യുന്നില്ലെങ്കിൽ നഷ്ടപ്പെടും അതിനാൽ ഈ ഹീറ്റ് എഞ്ചിനെ റിവേഴ്സിബിൾ ആയി പരിഗണിച്ച് ഈ താപത്തിന്റെ വർക്ക് പൊട്ടൻഷ്യൽ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിനിൽ നിന്നോ റിവേർസിബിൾ ഹീറ്റ് എഞ്ചിനിൽ നിന്നോ നമുക്ക് എത്ര വർക്ക് ഔട്ട്പുട്ട് ലഭിക്കും അത് ഇപ്രകാരമായിരിക്കും ഇവിടെ T0 എന്നത് സറൌണ്ടിങ് താപനില ആകുന്നു T എന്നത് സിസ്റ്റം ഹീറ്റ് എഞ്ചിനിലേക്ക് വിതരണം ചെയ്ത താപനിലയാണ് δQ എന്നത് ഹീറ്റ് എഞ്ചിന് ലഭിച്ച താപം അതിനാൽ ഈ രീതിയിൽ നമുക്ക് ഒരു ഊർജ്ജം നഷ്ടപ്പെടുന്നില്ല ഈ താപത്തിന്റെ പരമാവധി വർക്ക് പൊട്ടൻഷ്യൽ δQ നമ്മൾ വേർതിരിച്ചെടുക്കുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നു അതിനാൽ മുകളിലുള്ള സമവാക്യം നമുക്ക് ഇങ്ങനെ എഴുതാം ഇപ്പോൾ നിങ്ങളുടെ δQT എന്താണ് ഈ പ്രത്യേക പ്രക്രിയയിൽ സിസ്റ്റത്തിന്റെ എൻട്രോപ്പിയിലെ മാറ്റത്തിന്റെ വ്യാപ്തിയാണ് δQT അതിനാൽ മുകളിൽ പറഞ്ഞവ ഇങ്ങനെ എഴുതാം δQ - T0 - dS ഇവിടെ ഈ മൈനസ് ചിഹ്നം വരുന്നു കാരണം δQ പോസിറ്റീവ് ആയിരിക്കുന്നതിനാലാണ് നമ്മൾ ഈ പദപ്രയോഗം ഹീറ്റ് എഞ്ചിന്റെ അടിസ്ഥാനത്തിൽ എഴുതുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സിസ്റ്റത്തിൽ ഹീറ്റ് നഷ്ടപ്പെടുന്നു അതിനാൽ സിസ്റ്റത്തിന് δQ നെഗറ്റീവ് ആണ് അതിനാലാണ് ഈ -dS ചിത്രത്തിലേക്ക് കടന്നു വരുന്നത് അതായത് സമവാക്യം ഇനിപ്പറയുന്ന രൂപത്തിൽ ആകാം δQ T0 dS ഇപ്പോൾ സിസ്റ്റത്തിന്റെ പരമാവധി എക്സർജി എന്താണ് അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പരമാവധി വർക്ക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എക്സർജി എന്താണെന്ന് ഞാൻ പറയണം അതിനാൽ ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ സിസ്റ്റത്തിന്റെ പരമാവധി പ്രവർത്തന ശേഷിയുടെ ഒരു പദപ്രയോഗം നമുക്ക് ലഭിക്കും അതിനാൽ നമുക്ക് ആദ്യത്തെ നിയമപദപ്രയോഗത്തിലേക്ക് മടങ്ങാം നമുക്ക് അറിയാം dU - δQ - δW അല്ലെങ്കിൽ δW എന്നതിനുപകരം ഇത് PdV ക്ക് തുല്യമായി നമുക്ക് എഴുതാം അതിനാൽ സമവാക്യം ഇപ്രകാരമാകും dU - δQ - PdV അതിനാൽ മുകളിലുള്ള പദപ്രയോഗത്തിൽ നിന്ന് -δQ എടുത്ത് −PdV എടുത്ത് സമവാക്യം പുനക്രമീകരിക്കുക δWu PdV - P0dV സിസ്റ്റത്തിന്റെ പരമാവധി വർക്ക് പൊട്ടൻഷ്യൽ dU ഇങ്ങനെ എഴുതാം dU δWHE - T0 dS - δWu - P0dV മുകളിലുള്ള സമവാക്യം പുനക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്ന പദപ്രയോഗം ലഭിക്കും δWHE δWu - dU - P0dV T0 dS അതിനാൽ നമുക്ക് ഈ 'δWHE δWu' ശേഷിക്കുന്നു ഇത് എന്താണ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ആകെ വർക്കിന്റെ അളവാണിത് നമ്മൾ ബൌണ്ടറി വർക്കും ഉപയോഗിക്കുന്നു കൂടാതെ ഈ ഹീറ്റ് എഞ്ചിനിൽ നിന്ന് ചില റിവേർസിബിൾ വർക്ക് ഉല്പാദിപ്പിക്കുവാൻ നമ്മൾ ഹീറ്റ് ഉപയോഗിക്കുന്നു അതിനാൽ ഇത് സിസ്റ്റത്തിന്റെ എക്സർജി ആകുന്നു അതിനാൽ സിസ്റ്റത്തിന്റെ എക്സർജിയിലെ മാറ്റം δX എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്നു δX - dU - P0dV - T0dS വാസ്തവത്തിൽ ഇത് വളരെ ചെറിയ ഒരു പ്രക്രിയയിൽ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഒരു റിവേഴ്സിബിൾ വർക്ക് ആണ് ഈ പ്രാരംഭ ഘട്ടത്തിൽ നിന്ന് അന്തരീക്ഷമർദ്ദമായ അന്തിമ പോയിന്റിലേക്ക് ഇത് സംയോജിപ്പിച്ചുകഴിഞ്ഞാൽ അത് എക്സർജി ആയിരിക്കും അതിനാൽ ഈ സിസ്റ്റത്തിന്റെ എക്സർജി പലപ്പോഴും X എന്ന് വിളിക്കപ്പെടുന്നു മാത്രമല്ല ഇത് പലപ്പോഴും എക്സർജിയുടെ പ്രതീകമായി ഉപയോഗിക്കുന്നു അതിനാൽ അത് ഇപ്രകാരമായിരിക്കും അതാണ് ഏതൊരു സിസ്റ്റത്തിന്റെയും എക്സർജി മിക്കപ്പോഴും യൂണിറ്റ് മാസ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് എഴുതുന്നത് ഇതിന്റെ ചിഹ്നമാണ് ϕ ഇത് Xm അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ അത് ഇങ്ങനെ എഴുതാം ഒരു നിശ്ചിത സ്റ്റേറ്റ് പോയിന്റ് 1 ലെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എക്സർജി ആണ് ഇത് അതിനാൽ നിങ്ങൾക്ക് മർദ്ദവും താപനിലയും പോലുള്ള ഏതു പ്രോപർട്ടിയുടെയും അടിസ്ഥാനത്തിൽ പ്രാരംഭ സ്റ്റേറ്റ് പോയിന്റ് നിങ്ങൾക്കറിയാമെങ്കിൽ ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എക്സർജിയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കാക്കാം ഇപ്പോൾ നമ്മൾ ഓപ്പൺ സിസ്റ്റത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഓപ്പൺ സിസ്റ്റത്തിൽ ഒരു അധിക ഇഫക്റ്റ് മാത്രമേ ചിത്രത്തിലേക്ക് വരൂ അത് ഫ്ലോ വർക്ക് മൂലമാണ് അതിനാൽ ഒരു ഫ്ലോ വർക്കിന്റെ വർക്ക് പൊട്ടൻഷ്യൽ എത്രയാണ് ഫ്ലോ വർക്കിന്റെ വ്യാപ്തി Pv ആണെന്നും ഈ വർക്ക് ചുറ്റുമുള്ള മർദ്ദം P0 നെതിരായി നടക്കുന്നുവെന്നും നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് ഈ P0v നഷ്ടപ്പെടുന്നു അതിനാൽ Pv - P0v P - P0v ഇത് സറൌണ്ടിങ് വർക്ക് ആകുന്നു അതിനാൽ ഒരു ഓപ്പൺ സിസ്റ്റത്തിനായുള്ള എക്സർജി കണക്കാക്കണമെങ്കിൽ അത് എന്തായിരിക്കണം അത് ഇപ്രകാരമായിരിക്കും X Xcl XPv ഇവിടെ Xd എന്നത് നമ്മൾ ഇപ്പോൾ വികസിപ്പിച്ച ക്ലോസ്ഡ് സിസ്റ്റത്തിനായുള്ള എക്സർജി ആകുന്നു XPv എന്നത് ക്ലോസ്ഡ് സിസ്റ്റത്തിനായുള്ള എക്സർജി ആകുന്നു മുമ്പത്തെ പേജിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത ക്ലോസ്ഡ് സിസ്റ്റത്തിനായുള്ള എക്സർജിയുടെ പദപ്രയോഗം അതിനാൽ ഈ പദപ്രയോഗങ്ങൾ സംയോജിപ്പിച്ചാൽ നമുക്ക് X ഇപ്രകാരം ലഭിക്കും നിങ്ങൾ നിർദ്ദിഷ്ട അർത്ഥത്തിൽ എഴുതാത്തതിനാൽ ഇവിടെ നമ്മൾ 'V' ഉപയോഗിക്കുന്നു അതിനാൽ നമുക്ക് ഉള്ളത് ഇപ്പോൾ നമ്മൾ U ഉം Pv ഭാഗവും സംയോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്താൽപി ഉണ്ട് സമവാക്യം ഇപ്രകാരമാകും സാധാരണയായി ഒരു ഓപ്പൺ സിസ്റ്റത്തിന്റെ എക്സർജി പെർ യൂണിറ്റ് മാസിനെ പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ ψ എന്ന ചിഹ്നം ഉപയോഗിക്കുന്നു ഈ ഓപ്പൺ സിസ്റ്റത്തിനായി അതായത് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് കൈനറ്റിക് ഊർജ്ജമോ പൊട്ടൻഷ്യൽ ഊർജ്ജമോ ഇല്ലാത്ത സിമ്പിൾ കംപ്രസ്സബിൾ സിസ്റ്റത്തെക്കുറിച്ചാണ് സിസ്റ്റത്തിന് കൈനറ്റിക് ഊർജ്ജമോ പൊട്ടൻഷ്യൽ ഊർജ്ജമോ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഘടകങ്ങൾ ചേർക്കേണ്ടതുണ്ട് ക്ലോസ്ഡ് സിസ്റ്റത്തിനും നിങ്ങൾ ചെയ്യേണ്ടത് സമാനമായ കാര്യമാണ് അതുപോലെ ഒരു ഓപ്പൺ സിസ്റ്റത്തിനായി എക്സർജി പെർ യൂണിറ്റ് മാസിനു ഒരു സാമാന്യവൽക്കരിച്ച പദപ്രയോഗം ഇങ്ങനെ എഴുതാം ഇവിടെ c എന്നത് സറൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വേഗതയാണ് z എന്നത് സറൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ട സിസ്റ്റത്തിന്റെ ഉയരമാണ് അതുപോലെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന് ഇത് ഇപ്രകാരമായിരിക്കും ഇപ്രകാരം ഏതൊരു സ്റ്റേറ്റ് പോയിന്റിനും നിങ്ങൾക്ക് സിസ്റ്റത്തിന്റെ എക്സർജി കണക്കാക്കാം കൂടാതെ സിസ്റ്റം ചില പ്രക്രിയകൾക്ക് വിധേയമാകുമ്പോൾ ഉദാഹരണത്തിന് സ്റ്റേറ്റ് പോയിന്റ് 1 മുതൽ സ്റ്റേറ്റ് പോയിന്റ് 2 വരെയുള്ള ഒരു പ്രക്രിയയിൽ അപ്പോൾ സിസ്റ്റത്തിന്റെ എക്സർജിയിലെ ആകെ മാറ്റം ഇത് ഒരു അടച്ച സിസ്റ്റമാണെങ്കിൽ അത് പ്രാരംഭ എക്സർജി ϕ1 എന്നതിന് തുല്യമായിരിക്കും അത് ϕ2 ലേക്ക് മാറുന്നു നമ്മൾ മാസ് കൊണ്ട് ഗുണിച്ചാൽ ഈ പ്രക്രിയയ്ക്കിടയിൽ സിസ്റ്റത്തിന്റെ എക്സർജിയിൽ ഉണ്ടാകുന്ന ആകെ മാറ്റം ചുവടെ കൊടുത്തിരിക്കുന്നു mϕ1 − ϕ2 അതിനാൽ ഈ ആശയം ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രശ്നത്തിനും ഉപയോഗിക്കാൻ കഴിയും ഇതുവഴി ഒരു പ്രത്യേക പ്രക്രിയയിൽ മൊത്തം എക്സർജിയിലെ മാറ്റം നിങ്ങൾക്ക് കണക്കാക്കാം ഇപ്പോൾ എക്സെർജി നാശം എന്ന ആശയം നമ്മൾ കൂട്ടിച്ചേർത്തു ഇതിനായി നമ്മൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തെ പരിഗണിക്കുന്നു അതിനാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്നത് സറൌണ്ടിങ്ങുമായി ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ലാത്ത ഒരു സിസ്റ്റത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനായി നമ്മൾ എനർജി സമവാക്യം എഴുതിയാൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക ഐസൊലേഷൻ സിസ്റ്റത്തിലെ ഊർജ്ജ ഉള്ളടക്കത്തിലെ മാറ്റം ΔE Ein − Eout ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് ഒരു തരത്തിലുമുള്ള ഊർജ്ജ ഇടപെടലും ഇല്ല അതിനാൽ അത് 0 ന് തുല്യമായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പറയാം മൊത്തം ഊർജ്ജ പ്രതിപ്രവർത്തനം ഒന്നുകിൽ അതിന് കൈനറ്റിക് പൊട്ടൻഷ്യൽ ഊർജ്ജം ഇല്ല അപ്പോൾ നമുക്ക് ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിനായി ഇങ്ങനെ എഴുതാം ΔU0 ഇപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി ബാലൻസിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചില ഇറവെർസിബിൾ പ്രക്രിയകൾ കാരണം മാത്രമേ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി വർദ്ധിക്കാൻ കഴിയൂ എന്ന് നമുക്കറിയാം അതിനാൽ ഔപചാരികമായി പറഞ്ഞാൽ U2 - U1 0 അതുപോലെ എക്സർജി ബാലൻസ് പറയുന്നത് എക്സർജിയിലെ മാറ്റം S2−S1 Sin − Sout Sgen ഇപ്പോൾ ഇത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് അകത്തും പുറത്തും എൻട്രോപ്പി ഇല്ല അതിനാൽ അതിന്റെ എൻട്രോപ്പിക്ക് മാറാൻ കഴിയുന്ന ഏക മാർഗ്ഗം ജനറേഷനിലൂടെ മാത്രമാണ് ഇപ്പോൾ ഈ സമവാക്യത്തെ -T0 കൊണ്ട് ഗുണിക്കുക എന്നിട്ട് ആദ്യത്തെ സമവാക്യത്തിനൊപ്പം കൂട്ടുക പിന്നെ നിങ്ങളുടെ പക്കലുള്ളത് എന്താണ് നിങ്ങൾക്ക് ഉള്ളത് U2 - U1 - T0S2-S1 -T0 Sgen ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് സറൌണ്ടിങ്ങുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇന്ററാക്ഷൻ നടത്താൻ കഴിയില്ല അതിനാൽ അതിന് മൂവിങ് ബൌണ്ടറി വർക്ക് ഉല്പാദിപ്പിക്കുവാൻ കഴിയില്ല അതിനർത്ഥം വോള്യവും അതേപടി നിലനിൽക്കും അതിനാൽ ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സർജിയിലെ മാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു പദപ്രയോഗം എഴുതുകയാണെങ്കിൽ X2 - X1 U2-U1 P0V2-V1 - T0S2-S1 കൈനറ്റിക് പൊട്ടൻഷ്യൽ ഊർജ്ജ വ്യതിയാനങ്ങളെ അവഗണിക്കുന്നു അതിന് ഒരു തരത്തിലുള്ള വോളിയം മാറ്റവും ഉണ്ടാകരുത് അതിനാൽ P0V2-V1 എന്നത് 0 ന് തുല്യമാണ് അതിനാൽ ഇപ്പോൾ ഈ പദപ്രയോഗം ഉപയോഗിച്ച് എക്സർജിയിലെ ഈ മാറ്റം X2 - X1 -T0 Sgen ഇപ്പോൾ ഇവിടെ T0 എന്നത് സറൌണ്ടിങ്ങിന്റെയും എൻട്രോപ്പി ജനറേഷന്റെയും അബ്സൊല്യൂട്ട് താപനിലയാണ് അതിനാൽ അബ്സൊല്യൂട്ട് താപനില എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് അതുപോലെ എൻട്രോപ്പി ജനറേഷനും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് അതിനർത്ഥം X2 X1 അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കുറയുകയോ കുറയ്ക്കാനോ മാത്രമേ കഴിയൂ അതിനാൽ ഈ തത്വത്തെ എക്സെർജി ഡിസ്ട്രക്ഷൻ തത്വം എന്ന് വിളിക്കുന്നു ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സർജി കുറയുകയേയുള്ളു അതിനാൽ ഒരു സിസ്റ്റത്തിന്റെ എക്സർജി തീർച്ചയായും വർദ്ധിക്കും പക്ഷേ സിസ്റ്റം സറൌണ്ടിങ് കോമ്പിനേഷൻ എക്സർജിയുടെ കുറവിന് കാരണമാകും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഈ എൻട്രോപ്പി ജനറേഷന്റെ തത്വത്തിന്റെ ബദൽ പ്രസ്താവനയാണ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി വർദ്ധിപ്പിക്കാൻ മാത്രമേ കഴിയൂവെങ്കിലും ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സർജി കുറയുന്നു അതിനാൽ യഥാർത്ഥ പ്രക്രിയയിൽ നമുക്ക് പോസിറ്റീവ് എൻട്രോപ്പി ജനറേഷൻ ഉള്ള ദിശയിൽ മാത്രമേ സംഭവിക്കൂ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ എക്സർജി ഡിസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്നു ഇറവെർസിബിലിറ്റിയുടെ സാന്നിധ്യം കാരണം ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സർജിയിലെ മാറ്റം അല്ലെങ്കിൽ എക്സർജിയിലെ അളവിലുള്ള കുറവിനെ എക്സർജി ഡിസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എൻട്രോപ്പി ജനറേഷൻ അല്ലെങ്കിൽ എക്സെർജി ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന ദിശയിൽ മാത്രമേ യഥാർത്ഥ പ്രക്രിയക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതിനാൽ ഇത് ഇവിടെ ചർച്ച ചെയ്യേണ്ട അവസാന ആശയത്തിലേക്ക് നയിക്കുന്നു അത് ഒരു സിസ്റ്റത്തിന്റെ എക്സർജിയുടെ സന്തുലിതാവസ്ഥയാണ് അതിനുമുമ്പ് ഈ ബൌണ്ടറിയിലും സറൌണ്ടിങ്ങിലും ഒരു സിസ്റ്റത്തിന് എന്തൊക്കെ ഇന്ററാക്ഷൻസ് ഉണ്ടെന്ന് വേഗത്തിൽ പരിശോധിക്കാം നമുക്ക് മൂന്ന് തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാകാം എന്ന് നമുക്കറിയാം ഹീറ്റ് വർക്ക് അല്ലെങ്കിൽ മാസ് അതിനാൽ ആദ്യം താപ കൈമാറ്റം ഇത് നിങ്ങളുടെ സിസ്റ്റമാണെന്ന് നമുക്ക് പറയാം ഇത് സറൌണ്ടിങ്ങിൽ നിന്ന് δQ അളവിൽ താപം സ്വീകരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഊർജ്ജ സമവാക്യം എഴുതാം അതിനാൽ സിസ്റ്റത്തിന്റെ ഊർജ്ജത്തിലെ മാറ്റം dE ഇപ്രകാരമായിരിക്കും dE δQ ഇവിടെ δQ എന്നത് ഈ താപ കൈമാറ്റം കാരണം ഉള്ള ഊർജ്ജത്തിലെ മാറ്റം ആണ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പിയിലെ മാറ്റം എത്രയായിരിക്കും നിങ്ങൾക്കറിയാം എൻട്രോപ്പിയിലെ മാറ്റം dS ഇപ്രകാരമായിരിക്കും എൻട്രോപ്പിയിലെ മൊത്തത്തിലുള്ള മാറ്റത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ മാറ്റത്തെ സമന്വയിപ്പിക്കേണ്ടതുണ്ട് കാരണം ഒരു സിസ്റ്റത്തിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴെല്ലാം ഇത് ചില എൻട്രോപ്പി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ സിസ്റ്റത്തിലേക്ക് ഈ താപത്തോടൊപ്പം ഒഴുകുന്ന എക്സർജി എത്രയാണ് അതായത് അത് ഈ താപത്തിന്റെ വർക്ക് പൊട്ടൻഷ്യൽ ആണ് അതിനാൽ ഈ വിധത്തിൽ നമുക്ക് സിസ്റ്റത്തിലേക്ക് ഊർജ്ജ എൻട്രോപ്പിയും എക്സർജി ട്രാൻസ്ഫറും നടത്താം നിങ്ങൾക്ക് δQ അളവിൽ താപ കൈമാറ്റം നടക്കുന്ന ഒരു മതിലിനു കുറുകെ ഇവിടെ നിർവചിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണിത് എന്നാൽ ഉള്ളിൽ ഉള്ള മീഡിയം 1 ൽ നിങ്ങൾക്ക് താപനില T1 ഉം പുറത്തുനിന്നുള്ള താപനില T2 ഉം ആണ് ഇപ്പോൾ ഊർജ്ജം സംരക്ഷിക്കപ്പെടുന്നു അതനുസരിച്ച് അത് മതിലിലൂടെ സുഗമമായി ഒഴുകുന്നു എന്നിരുന്നാലും ഇതിനുള്ളിൽ എൻട്രോപ്പി ജനറേറ്റുചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ താപനിലയ്ക്കുള്ളിൽ എൻട്രോപ്പി കൈമാറ്റം QT1 ആയിരിക്കും അതിനാൽ ഇവിടെ ഈ മീഡിയം 1 ന് QT1 അളവിൽ താപം നഷ്ടപ്പെടുന്നു പക്ഷേ മീഡിയം 2 QT2 അളവിൽ താപം നേടുന്നു ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒന്നാമത്തേതിന് ലഭിച്ച മൂല്യത്തേക്കാൾ കൂടുതലായിരിക്കും കാരണം T2 T1 നേക്കാൾ ചെറുതാണ് അതിനുള്ള കാരണം എന്താണ് എന്ന് വച്ചാൽ താപനിലയിലെ മാറ്റം കാരണം മതിലിനുള്ളിൽ ഉണ്ടാകുന്ന ഈ എൻട്രോപ്പി ജനറേഷൻ കാരണം ആണ് എക്സർജിയുടെ കാര്യമോ ഇവിടെ ഈ അളവിലുള്ള എക്സർജി മീഡിയം 1 ൽ നിന്ന് മതിലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാൽ പുറത്ത് നമുക്ക് ഇത് ഇത്രമാത്രമേ മാത്രമേ ലഭിക്കൂ ഈ അളവിൽ നഷ്ടം ഉണ്ടാകുന്നു ഈ മതിലിനുള്ളിലെ താപനില വ്യതിയാനം കാരണം ഈ അളവിലുള്ള എക്സർജി ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു അങ്ങനെയാണ് നമ്മൾ താപവുമായി ബന്ധപ്പെട്ട എൻട്രോപ്പിയും എക്സർജി ട്രാൻസ്ഫറും കണക്കാക്കുന്നത് ഇപ്പോൾ വർക്ക് ട്രാൻസ്ഫെറിനെ കുറിച്ച് എന്താണ് അതിനാൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലുള്ള ഒരു സിസ്റ്റം ഉണ്ട് കൂടാതെ സിസ്റ്റം δW അളവിൽ വർക്ക് സറൌണ്ടിങ്ങിലേക്ക് കൈമാറുന്നുവെന്ന് കരുതുക അപ്പോൾ സിസ്റ്റത്തിന്റെ ഊർജ്ജ മാറ്റം എത്രയാണ് അത് dE − δW സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കൈമാറ്റം എത്രയാണ് എൻട്രോപ്പിയിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താത്ത ഊർജ്ജത്തിന്റെ സംഘടിത രൂപത്തിലുള്ള വർക്ക് അതിനാൽ ഇത് ഇപ്രകാരമായിരിക്കും dS0 എന്നാൽ ഈ വർക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ എക്സർജി ട്രാൻസ്ഫർ എത്രയായിരിക്കും എന്താണ് എക്സർജി എക്സർജി എന്നത് വർക്ക് പൊട്ടൻഷ്യൽ മാത്രമാണ് അതിനാൽ നിങ്ങളുടെ എക്സർജി നഷ്ടം ഇപ്രകാരമായിരിക്കും δX δW δW ന്റെ ദിശ വിപരീതമായിരിക്കാം അത്തരം സന്ദർഭങ്ങളിൽ സിസ്റ്റം എക്സർജി നേടുന്നു ഇവിടത്തെ സാഹചര്യത്തിൽ അത് എക്സർജി നഷ്ടപ്പെടുത്തുന്നു ഒടുവിൽ നമുക്ക് മാസ് ട്രാൻസ്ഫർ ഉണ്ട് അതിനാൽ വീണ്ടും നമ്മൾ ഒരു സിസ്റ്റത്തെ പരിഗണിക്കുന്നു അതിൽ ṁ നിരക്കിൽ മാസ് സിസ്റ്റത്തിലേക്ക് ഒഴുകുന്നു അതിനാൽ സിസ്റ്റത്തിന്റെ ഊർജ്ജ ഉള്ളടക്കത്തിലെ മാറ്റം എത്രയാണ് അത് അതിനാൽ സിസ്റ്റത്തിന്റെ ഊർജ്ജം വർദ്ധിക്കുന്ന നിരക്കാണിത് എൻട്രോപ്പി മാറുന്ന നിരക്ക് എത്രയാണ് അത് very simple വളരെ ലളിതമാണ് സിസ്റ്റത്തിന്റെ എക്സർജി മാറ്റത്തിന്റെ നിരക്ക് എത്രയായിരിക്കും അത് നമ്മൾ പെർ യൂണിറ്റ് മാസിന്റെ എക്സർജി കണക്കാക്കി അതിനാൽ ഈ രീതിയിൽ എക്സെർജി റേറ്റ് അല്ലെങ്കിൽ എക്സെർജിയെ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കണക്കാക്കാം അതിനാൽ ഇത് ഉപയോഗിച്ച് ഇപ്പോൾ ക്ലോസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ ആയ ഒരു സിസ്റ്റത്തിന്റെ എക്സർജി എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്കറിയാം കൂടാതെ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വർക്ക് മാസ് ട്രാൻസ്ഫർ എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു സിസ്റ്റത്തിൽ നിന്ന് എക്സർജി ട്രാൻസ്ഫറും എൻട്രോപ്പി ട്രാൻസ്ഫറും എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്കറിയാം അതിനാൽ പൂർണ്ണമായ തെർമോഡൈനാമിക് വിശകലനം ലഭിക്കുന്നതിന് നമ്മൾ അവയെ എല്ലാം സംയോജിപ്പിക്കുന്നു ഒരു തെർമോഡൈനാമിക് വിശകലനം നടത്താൻ നമ്മൾ ആദ്യത്തെ നിയമവും രണ്ടാമത്തെ നിയമ വിശകലനവും നടത്തേണ്ടതുണ്ട് ആദ്യത്തെ നിയമ വിശകലനം അർത്ഥമാക്കുന്നത് നമ്മൾ ഊർജ്ജ സംരക്ഷണ തത്വം എഴുതണം എന്നാണ് ഓർമ്മിക്കുക ഊർജ്ജം ഒരു സംരക്ഷിത സ്വത്താണ് ആപേക്ഷികതാ സിദ്ധാന്തത്തെത്തുടർന്ന് പിണ്ഡത്തെ ഊർജ്ജമാക്കി മാറ്റുന്നതിനാൽ ഊർജ്ജം കുറയുകയോ കൂടുകയോ ചെയ്യാം എന്നിരുന്നാലും നമ്മൾ ഇവിടെ അവഗണിക്കുന്ന ന്യൂക്ലിയർ പ്രതിപ്രവർത്തനങ്ങളുടെ പരിമിതമായ കേസുകളിൽ മാത്രമേ അത് സംഭവിക്കൂ അതിനാൽ ഒരു സിസ്റ്റത്തിന്റെ ഊർജ്ജ ഉള്ളടക്കത്തിലെ മാറ്റം ഇപ്രകാരമായിരിക്കും dE δQ - δW δmθ ഇതാണ് ഊർജ്ജ സമവാക്യം നമുക്ക് ഇത് ഒരു സംരക്ഷണ സമവാക്യം ആയി എഴുതാം എൻട്രോപ്പിയുടെ കാര്യമോ എൻട്രോപ്പി ജനറേഷൻ ഉള്ളതിനാൽ എൻട്രോപ്പി ഒരു സംരക്ഷിക്കപ്പെടാത്ത സ്വത്താണ് അതിനാൽ നമുക്ക് എൻട്രോപ്പിയിൽ ഉള്ള മാറ്റം ഇവിടെ നമ്മൾ പെർ യൂണിറ്റ് മാസിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതുന്നത് ഒടുവിൽ എക്സിർജിയെ കുറിച്ച് എന്താണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനായി നമ്മൾ എഴുതുകയാണെങ്കിൽ എക്സർജിയിലെ മാറ്റം നമ്മൾ എല്ലാം വിപുലമായ അർത്ഥത്തിലാണ് എഴുതുന്നത് അതിനാൽ ഇത് എൻട്രോപ്പി ജനറേഷനാണ് ഒടുവിൽ എക്സർജിയിലെ മാറ്റം താപം ഉപയോഗിച്ച് എക്സർജിയെ കൈമാറ്റം ചെയ്യും ഇവിടെ - δW എന്നത് വർക്ക് കാരണം സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ഊർജ്ജനഷ്ടമാണ് δmθ എന്നത് മാസുമായുള്ള എക്സർജി ട്രാൻസ്ഫർ ആണ് Xdes എന്നത് ഈ പ്രക്രിയയ്ക്കിടയിൽ നശിപ്പിച്ച എക്സർജി ആണ് അതിനാൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം ഇവ രണ്ടും എൻട്രോപ്പി ബാലൻസിനായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ എൻട്രോപ്പി ജനറേഷനെ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എക്സർജിക്ക് വേണ്ടി നിങ്ങൾ ഈ എക്സർജി ഡിസ്ട്രക്ഷനെ പരിഗണിക്കേണ്ടതുണ്ട് കൂടാതെ ഈ രണ്ട് സമവാക്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം രണ്ടും നിങ്ങൾക്ക് ഒരേ ഫലം നല്കുന്നു അതിനാൽ സിസ്റ്റത്തിന്റെ സമ്പൂർണ്ണ തെർമോഡൈനാമിക് വിശകലനത്തിനായി നമ്മൾ ഊർജ്ജ സമവാക്യവും എൻട്രോപ്പി അല്ലെങ്കിൽ എക്സർജി ബാലൻസ് സമവാക്യവും പരിഹരിക്കേണ്ടതുണ്ട് അതുവഴി സിസ്റ്റത്തിന്റെ പൂർണ്ണമായ ചിത്രം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഞാൻ ഇട്ട ചിഹ്നങ്ങളെക്കുറിച്ച് ഞാൻ മറന്നു പക്ഷേ ആശയം നന്നായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ അത് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിന്റെ അവസാനത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നു ഈ മൊഡ്യൂളിൽ തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് സന്തുലിതാവസ്ഥ മുതലായവയെക്കുറിച്ച് സംസാരിക്കുന്ന ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തെർമോഡൈനാമിക്സിന്റെ അടിസ്ഥാന തത്വം അവലോകനം ചെയ്തു തുടർന്ന് തെർമോഡൈനാമിക്സിന്റെ സീറോത്ത് നിയമം ഉപയോഗിച്ച് താപനില എന്ന ആശയം അവതരിപ്പിച്ചു തുടർന്ന് നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ഒന്നും രണ്ടും നിയമം അവലോകനം ചെയ്തു ആദ്യ നിയമം ഉപയോഗിച്ച് നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ഊർജ്ജ ബാലൻസ് നേടാനും അനുബന്ധ ഊർജ്ജ വിശകലനം നടത്താനും ഹീറ്റ് എഞ്ചിനുകളുടെ കാര്യക്ഷമത കണക്കാക്കാനും അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ഹീറ്റ് എഞ്ചിനുകളുടെ COP കൾ കണക്കാക്കാനും കഴിയും തുടർന്ന് റിവേർസിബിൾ പ്രോസസ്സുകളെക്കുറിച്ചും റിവേർസിബിൾ സൈക്കിളുകളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു അവിടെ നിന്ന് കാർനോട്ട് സൈക്കിൾ കാർനോട്ട് കാര്യക്ഷമത എന്നിവ ലഭിച്ചു തുടർന്ന് മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ എൻട്രോപ്പിയെക്കുറിച്ചും എൻട്രോപ്പി ജനറേഷനെക്കുറിച്ചും സംസാരിച്ചു ഇന്ന് നമ്മൾ എക്സർജി എക്സർജി ഡിസ്ട്രക്ഷൻ എന്ന ആശയം അവലോകനം ചെയ്യുകയും ഒടുവിൽ അവയെല്ലാം സംയോജിപ്പിച്ച് ഒരു സിസ്റ്റത്തിന്റെ പൂർണ്ണമായ തെർമോഡൈനാമിക് വിശകലനം നേടുകയും ചെയ്തു അതിനാൽ ഈ പ്രത്യേക ആഴ്ചയിൽ അടിസ്ഥാന തെർമോഡൈനാമിക്സിനെക്കുറിച്ച് നമ്മൾ വളരെ വേഗത്തിൽ അവലോകനം ചെയ്തു പാഠപുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഞാൻ ഇവിടെ ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല കാരണം നിങ്ങൾ ഇതിനകം തന്നെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചതായി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇവയിൽ ചിലത് അസൈൻമെന്റ് ആയിട്ട് നൽകും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക കൂടാതെ ഒരു നിർദ്ദേശവും ഉള്ളത് ഏതെങ്കിലും സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ നിയമ വിശകലനം നടത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴെല്ലാം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കുക എൻട്രോപ്പി അധിഷ്ഠിത സമീപനവും എക്സർജി അടിസ്ഥാനമാക്കിയുള്ള സമീപനവുമുള്ള രണ്ട് സമീപനങ്ങളും പിന്തുടർന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക അവയിൽ നിന്ന് സമാന ഫലം ലഭിക്കുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുക അതിനാൽ ഈ പ്രത്യേക ആഴ്ചയിൽ ഇത്രയും ആണ് അടുത്ത ആഴ്ച തെർമോഡൈനാമിക് പ്രോപ്പർട്ടികളുടെ കണക്കുകൂട്ടലിനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ ആരംഭിക്കും അതുവരെ നിങ്ങൾ ഈ പ്രത്യേക മൊഡ്യൂൾ അവലോകനം ചെയ്യുക പ്രഭാഷണങ്ങൾ അവലോകനം ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി എനിക്ക് ഉടനെ എഴുതുക അതിനാൽ ഈ പ്രത്യേക ആഴ്ചയിൽ എനിക്ക് കുറച്ച് വിശ്രമം എടുക്കാം അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം